നിർദ്ദേശത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം ആശംസകൾ ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ടതും ജനപ്രിയവുമായ സമീപനമായ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തെക്കുറിച്ചുള്ള മൊഡ്യൂൾ 3 യൂണിറ്റ് 11 ലേക്ക് സ്വാഗതം മുമ്പത്തെ യൂണിറ്റിൽ ഒരു ട്രാൻസാക്ഷണൽ നിർദ്ദേശ മാതൃകയെ അടിസ്ഥാനമാക്കി നിർദ്ദേശത്തിനുള്ള നേരിട്ടുള്ള സമീപനം ഞങ്ങൾ മനസ്സിലാക്കി ഈ യൂണിറ്റിൽ നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം ഞങ്ങൾ മനസിലാക്കും പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം ഈ പദം ഇപ്പോൾ നിരവധി വിശാലമായ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നു ചിലപ്പോൾ ഈ പദം പ്രശ്നം അടിസ്ഥാനമാക്കിയുള്ള സമീപനം അന്വേഷണ അധിഷ്ഠിത സമീപനം മുതലായ പദങ്ങളുമായി പരസ്പരം മാറ്റത്തക്കതായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ യൂണിറ്റിന്റെ അവസാനത്തിൽ പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന് വളരെ സവിശേഷതകൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുമെന്ന് കരുതുന്നു ഇത് പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം അല്ലെങ്കിൽ അന്വേഷണ അധിഷ്ഠിത സമീപനം അല്ലെങ്കിൽ അനുഭവം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു ഈ പദങ്ങൾ സമാനമായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഓരോന്നിനും വ്യത്യസ്തമായ അഭിരുചി ഉണ്ട് മാത്രമല്ല അത് ആ സമീപനത്തെ സവിശേഷമാക്കുന്നു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ അവസാന വർഷത്തിൽ മാത്രം ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് പ്രത്യേകിച്ചും ഇന്ത്യയിലെ മിക്ക സ്ഥാപനങ്ങളിലും വളരെ സാധാരണമായ ഒരു സവിശേഷതയാണ് എന്നാൽ ഇത് സ്വയം നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനമല്ല അതായത് ഒരു അവസാന വർഷ പ്രോജക്റ്റ് നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനമായി നിർദ്ദേശത്തെ മാറ്റില്ല എന്നത് പൊതുവായി അംഗീകരിക്കപ്പെടുന്നു അതെ ആ പ്രത്യേക പ്രവർത്തനം പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം അർത്ഥമാക്കുന്നത് അവസാന വർഷത്തിലോ അവസാന സെമസ്റ്ററിലോ മാത്രമല്ല പ്രോഗ്രാമിലുടനീളം പ്രോജക്റ്റ് വർക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് ഇത് വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റ് അധിഷ്ഠിത പഠനത്തിന് കാരണമാകണം വാസ്തവത്തിൽ ഈ വിഷയസംബന്ധിയായ സകല രചനകളിൽ പിബിഎൽ കൂടുതൽ സാധാരണ പദമാണ് അല്ലെങ്കിൽ പിആർബിഎൽ ചിലപ്പോൾ പ്രശ്നം അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ ആളുകൾ അത് ഉപയോഗിക്കുന്നു ഇത് പൊതുവായി പിബിഎൽ എന്ന് ചുരുക്കിപ്പറയുന്നു പ്രോജക്റ്റ് അധിഷ്ഠിത പഠനത്തെ പൊതുവെ പിആർബിഎൽ എന്ന് വിളിക്കുന്നു പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം അല്ലെങ്കിൽ നിർദ്ദേശത്തിനുള്ള പിബിഐ അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് 4 വർഷത്തിലുടനീളം പ്രോഗ്രാമിലുടനീളം പ്രോജക്റ്റ് വർക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുവെന്നും ഇത് പ്രോജക്റ്റ് അധിഷ്ഠിത പഠനത്തിന് കാരണമാകുമെന്നും ആണ് നടപ്പാക്കൽ വിശദാംശങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുടനീളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാൽ സമീപനം പ്രോഗ്രാമിലുടനീളം നടപ്പാക്കണം എന്നതാണ് പൊതുവായ തത്ത്വശാസ്ത്രം ഇവയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിനുള്ള പ്രധാന നിയന്ത്രണ സംവിധാനം വ്യവസായത്തിൽ നിന്നുള്ള സമ്മർദ്ദം ലോകമെമ്പാടും സമൂഹത്തിലുമുള്ള അക്രഡിറ്റേഷൻ ബോഡികൾ പൊതുവായി എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ പ്രകടിപ്പിക്കേണ്ട ഉയർന്ന കഴിവുകൾ പ്രോഗ്രാമിന്റെ അവസാനം സാങ്കേതിക പരിജ്ഞാനം മനഃപാഠമാക്കുക മാത്രമല്ല അവ എഞ്ചിനീയറിംഗ് വിജ്ഞാനാധിഷ്ഠിത കഴിവുകൾ മാത്രമല്ല പ്രൊഫഷണൽ പരിശീലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൻബിഎ വ്യക്തമാക്കിയ പ്രോഗ്രാം ഫലങ്ങളിൽ പകർത്തിയ അത്തരം പ്രതീക്ഷകളിൽ ആശയവിനിമയം ടീം വർക്ക് എത്തിക്സ് ജീവിതകാലം മുഴുവൻ പഠനം എന്നിവ പോലുള്ള പ്രൊഫഷണൽ പരിശീലനത്തിന്റെ വശങ്ങൾ ഉൾപ്പെടുന്നു ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികവിദ്യയുടെ അതിവേഗം മാറുന്ന ഗതി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് കഴിവുണ്ടായിരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു കൂടാതെ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ പരിശീലനവുമായി ബന്ധപ്പെട്ട കഴിവുകൾ വിദ്യാർത്ഥികളിൽ വികസിപ്പിക്കുമെന്ന് വ്യവസായം പ്രതീക്ഷിക്കുന്നു പരമ്പരാഗത എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അത്തരം പിഒകളെ ശരിക്കും അഭിസംബോധന ചെയ്യാൻ കഴിയില്ല അവ അടിസ്ഥാനപരമായി പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചില സാഹചര്യങ്ങളിൽ വളരെ നിയന്ത്രിതമായ ലബോറട്ടറി പ്രാക്ടീസ് ഉപയോഗിച്ച് ഇത് അനുബന്ധമായി നൽകാം ഇതിന് നിർദ്ദേശങ്ങളോട് വ്യത്യസ്തമായ ഒരു സമീപനം ആവശ്യമാണ് ഇത് പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന്റെ വിശാലമായ തോതിലുള്ള നവീകരണത്തിലേക്ക് നയിച്ചു അവസാന വർഷ പ്രോജക്റ്റിന് ഈ പിഒകളെ അഭിസംബോധന ചെയ്യാൻ കഴിയും വ്യവസായമോ സമൂഹമോ പൊതുവെ പ്രതീക്ഷിക്കുന്ന പരിധിവരെ ഈ കഴിവുകൾ നേടിയെടുക്കാനും പ്രകടിപ്പിക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിൽ ഈ പ്രവർത്തനം മാത്രം അപര്യാപ്തമാണ് തീർച്ചയായും അവസാന വർഷ പ്രോജക്റ്റ് സഹായകരമാണ് പക്ഷേ ഇത് അപര്യാപ്തമാണെന്ന് കണ്ടെത്തി ആഴത്തിലുള്ള പഠനത്തിന് സിദ്ധാന്തത്തെയും അതിന്റെ പ്രയോഗത്തെയും വളരെ കർശനമായി സമന്വയിപ്പിക്കേണ്ടതുണ്ടെന്ന് വിദ്യാഭ്യാസ ഗവേഷണം തെളിയിച്ചിട്ടുണ്ട് ലബോറട്ടറി ജോലികളിലെ പരമ്പരാഗതപരിശീലനം മിക്ക കേസുകളിലും തികച്ചും അപര്യാപ്തമാണെന്ന് കണ്ടെത്തി അതെ പ്രായോഗിക സാഹചര്യങ്ങളിൽ സൈദ്ധാന്തിക തത്ത്വങ്ങൾ പ്രയോഗിക്കുന്നതിൽ ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു പക്ഷേ ലബോറട്ടറികൾ മിക്കപ്പോഴും നടത്തുന്ന രീതി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അനുഭവം തികച്ചും അപര്യാപ്തമാണെന്ന് കണ്ടെത്തി കൂടാതെ മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസ അവസരങ്ങളുടെ ഇന്നത്തെ ലോകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബ്രാൻഡിംഗ് നടത്താൻ സ്ഥാപനങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ അവർ അധ്യാപനത്തിനായി ആധുനിക നൂതന രീതികൾ സ്വീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതിലൂടെ അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന്റെ പ്രധാന സവിശേഷതകൾ ചെയ്യുന്നതിലൂടെ പഠിക്കുക യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ റിയലിസ്റ്റിക് പരിഹാരം ഒരു ഗൈഡ് ഉപദേഷ്ടാവായി ഇൻസ്ട്രക്ടർ ജോലിയുടെ ഇന്റർഡിസിപ്ലിനറി സ്വഭാവം സഹകരണം ഗ്രൂപ്പ് വർക്ക് എന്നിവ മറ്റ് നിരവധി സവിശേഷതകളുണ്ടെങ്കിലും പക്ഷേ ഇവ പിബിഐയുടെ പ്രധാന സവിശേഷതകളാണ് നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം ആദ്യത്തെ തത്ത്വം "ചെയ്യുന്നതിലൂടെ പഠിക്കുക" ചെയ്യുന്നത് പഠനത്തിന്റെ കേന്ദ്രമാണ് എന്ന ആശയം വളരെ പഴയതാണ് അമേരിക്കൻ തത്ത്വചിന്തകനും മനഃശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ ജോൺ ഡേവി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇത് ശക്തമായി വാദിച്ചു മെറിലിന്റെ ആദ്യ പഠന തത്വങ്ങളിലൊന്നാണ് പ്രയോഗിക്കുക ഡയറക്റ്റ് ഇൻസ്ട്രക്ഷന്റെ ട്രാൻസാക്ഷണൽ മോഡലിന്റെ പ്രധാന ഘട്ടങ്ങളിലൊന്നാണ് പ്രാക്ടീസ് മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ ചർച്ചചെയ്തത് വാസ്തവത്തിൽ നിർദ്ദേശങ്ങളോടുള്ള ഏത് സമീപനത്തിനും ഒരു പ്രധാന ഘടകമെന്ന നിലയിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം എവിടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം വ്യത്യസ്തമാണ് അതിൽ ഒരു പ്രധാന പങ്ക് ചെയ്യുന്നതിലൂടെ പഠിക്കുക കൂടാതെ ചെയ്യുന്നതിന്റെ വ്യാപ്തി വളരെ ഗണ്യമാണ് അതായത് വിദ്യാർത്ഥികൾ ചെയ്യുന്ന പരിശീലനം വളരെ ഗൌരവമുള്ളതാണ് ഇത് അധ്യായത്തിന്റെ അവസാനത്തെ അഭ്യാസങ്ങൾ പരിഹരിക്കുമ്പോളോ ലബോറട്ടറികളിലോ ക്ലാസ് മുറികളിലോ സംഭവിക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ് "ചെയ്യുന്നത്" കൂടുതൽ വിപുലമായ തോതിലാണ് അതിനാൽ ചെയ്യുന്നതിലൂടെയുള്ള പഠനത്തിന് "ചെയ്യുന്നതിലൂടെ" സൂചിപ്പിക്കുന്ന പ്രധാന പങ്ക് പ്രവർത്തനങ്ങളുടെ വ്യാപ്തി ഇവ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന്റെ സവിശേഷതകളാണ് ഒരു വിദ്യാർത്ഥിയുടെ പങ്ക് ശ്രവിക്കുന്നതിൽ നിന്നും തുടർന്ന് പരിശീലനത്തിലൂടെയും മാറുന്നു അതിനർത്ഥം ചെയ്യുന്നതും പഠിക്കുന്നതും അഭേദ്യമാണ് അവ വളരെ കർശനമായി സംയോജിപ്പിച്ചിരിക്കുന്നു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ അവസാന വർഷ പ്രോജക്ടും പ്രോഗ്രാമിലുടനീളം ലബോറട്ടറി ജോലികളും വളരെ സാധാരണമാണെങ്കിലും പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം പരിശീലനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും പ്രോഗ്രാമിലുടനീളം പ്രോജക്റ്റ് ജോലികൾ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു പ്രോഗ്രാമിലുടനീളം പ്രോജക്റ്റ് ജോലികൾ സംയോജിപ്പിക്കാൻ ഞങ്ങൾക്ക് എത്രത്തോളം കഴിയും ഈ ആശയങ്ങൾ നടപ്പിലാക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യും തത്ത്വത്തിൽ പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങൾ കാണും കർശനമായ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന്റെ അല്പം ഭാരം കുറഞ്ഞ പതിപ്പ് സ്വീകരിക്കാൻ സാഹചര്യ പരിമിതികൾ ഞങ്ങളെ പ്രേരിപ്പിച്ചേക്കാം ഇപ്പോഴും അത് തികച്ചും ഉപയോഗപ്രദമാണ് മുന്നോട്ട് പോകുമ്പോൾ ഈ തടസ്സങ്ങളും വിട്ടുവീഴ്ചകളും എന്താണെന്ന് ഞങ്ങൾ കാണും പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിലെ പ്രയോഗത്തിൽ കേന്ദ്ര സ്ഥാനം യഥാർത്ഥ ലോക പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും കേന്ദ്രീകരിച്ചുള്ളതുമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന്റെ അടുത്ത പ്രധാന സവിശേഷതയാണിത് യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ വിദ്യാർത്ഥിയുടെ താൽപ്പര്യവും ശ്രദ്ധയും പിടിച്ചെടുക്കുന്നു ഇത് മെറിലിന്റെ ടാസ്ക് കേന്ദ്രീകൃത തത്ത്വവുമായി പൊരുത്തപ്പെടുന്നു സാധ്യമായ പരിഹാരങ്ങളുടെ ഒരു ശ്രേണി അനുവദിക്കുന്നതിനും പ്രശ്നരൂപീകരണ വൈദഗ്ധ്യമുള്ള വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനും പ്രശ്നങ്ങൾ സങ്കീർണ്ണവും തുറന്നതുമായിരിക്കുമെന്ന് സാധാരണയായി പ്രതീക്ഷിക്കുന്നു ഭൂരിഭാഗം പഠന സന്ദർഭങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പ്രശ്ന രൂപീകരണ കഴിവുകൾ ഇല്ലെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കാരണം മിക്ക പരമ്പരാഗത ഔപചാരിക പ്രോഗ്രാമുകളിലും ഇതിനകം തന്നെ രൂപപ്പെടുത്തിയ വളരെ ഘടനാപരമായ പ്രശ്നം ഇൻസ്ട്രക്ടർ നൽകുന്നു ഈ രീതി ഉപയോഗിച്ച് ഇനിപ്പറയുന്ന പ്രശ്നം പരിഹരിക്കുക അങ്ങനെയാണ് അഭ്യാസം പ്രസ്താവിക്കുന്നത് എല്ലാ കാഠിന്യത്തിലും പ്രശ്നം രൂപപ്പെടുത്തിയിരിക്കുന്നു അവ്യക്തതയില്ല തുറന്ന നിലയില്ല പ്രശ്നം പ്രസ്താവിക്കുന്ന രീതിയെക്കുറിച്ച് അവ്യക്തമായി ഒന്നുമില്ല വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പരിഹാരത്തെക്കുറിച്ച് അവ്യക്തമായി ഒന്നുമില്ല അതിനാൽ പ്രശ്നപ്രസ്താവനയും പ്രതീക്ഷിക്കുന്ന പരിഹാരവും എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച ദിശകളിലാണ് അതേസമയം യഥാർത്ഥ ലോകത്ത് ഇത് അപൂർവ്വമായി മാത്രമേ സംഭവിക്കൂ അതിനാൽ വ്യവസായത്തിൽ നിന്നുള്ള ഒരു പരാതി യഥാർത്ഥ ലോകത്തിന്റെ സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരണത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് പദങ്ങളിൽ ഒരു പ്രശ്നം രൂപപ്പെടുത്തുന്നതിനാവശ്യമായ കഴിവുകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നില്ല എന്നതാണ് യഥാർത്ഥ ലോക പ്രശ്നത്തിൽ വളരെയധികം അവ്യക്തതയുണ്ട് എഞ്ചിനീയർമാർക്ക് ആദ്യം ഒരു അവ്യക്തപ്രശ്നം രൂപപ്പെടുത്താനുള്ള വൈദഗ്ദ്ധ്യം ആവശ്യമാണ് അതിനാൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ വിദ്യാർത്ഥികൾക്ക് പൊതുവായി നൽകുന്ന പ്രശ്നങ്ങൾ സങ്കീർണ്ണവും തുറന്നതുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വിദ്യാർത്ഥികളെ പ്രശ്നരൂപീകരണ കഴിവുകൾ പോലും പരിശീലിപ്പിക്കുന്നു പ്രോജക്റ്റിലൂടെ പരിഹരിക്കപ്പെടേണ്ട യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ ആരാണ് തിരഞ്ഞെടുക്കുന്നത് വീണ്ടും സാഹചര്യത്തെ ആശ്രയിച്ച് നിരവധി ഓപ്ഷനുകൾ ഉണ്ടാകാം ആദ്യത്തെ ഓപ്ഷൻ ബദൽ ഇൻസ്ട്രക്ടറുടെ മൊത്തം നിയന്ത്രണത്തിലാണ് ഡൊമെയ്നും ഡൊമെയ്നിലെ പ്രശ്നങ്ങളും ഇൻസ്ട്രക്ടർ തിരഞ്ഞെടുക്കുകയും വിദ്യാർത്ഥി ടീമുകൾക്ക് നൽകുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിനെ നിയുക്ത പ്രോജക്റ്റുകൾ എന്ന് വിളിക്കാം ഇൻസ്ട്രക്ടറാണ് ആകെ നിയന്ത്രിക്കുന്നത് പ്രശ്നം അതിന്റെ പ്രസ്താവന അത് ഏൽപ്പിച്ചിട്ടുള്ള ടീം അവയെല്ലാം ഇൻസ്ട്രക്ടർ നിർദ്ദേശിക്കുന്നു ഇത് വ്യക്തമായും വളരെ കാര്യക്ഷമവും നടപ്പിലാക്കാൻ വളരെ ലളിതവുമാണ് പക്ഷേ ഇതിന് പരിമിതികളുണ്ട് എന്നാൽ ഇത് സാധ്യമായ ഒരു ബദലാണ് രണ്ടാമത്തെ ബദൽ ഇപ്പോഴും ഇൻസ്ട്രക്ടറുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ വിദ്യാർത്ഥികൾക്ക് ചില വഴികളുണ്ട് ഡൊമെയ്നും ഡൊമെയ്നിലെ പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റും ഇൻസ്ട്രക്ടർ തിരഞ്ഞെടുക്കുകയും വിദ്യാർത്ഥികൾക്ക് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ അനുവാദവുമുണ്ട് തീർച്ചയായും ഒന്നിലധികം വിദ്യാർത്ഥികൾ ഒന്നിലധികം വിദ്യാർത്ഥി ടീമുകൾ ഒരേ പ്രോജക്റ്റും അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ പൊരുത്തക്കേടുകൾ പരിഹരിക്കേണ്ടതുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി വിദ്യാർത്ഥികൾക്ക് ചില തിരഞ്ഞെടുപ്പുകൾ ലഭിക്കുന്നു നടപ്പിലാക്കാൻ പ്രയാസമുള്ളതും എന്നാൽ വിദ്യാർത്ഥിക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകുന്നതുമായ മൂന്നാമത്തെ ബദൽ ഇൻസ്ട്രക്ടർ ഡൊമെയ്ൻ മാത്രം വ്യക്തമാക്കുകയും വിദ്യാർത്ഥികൾ പ്രശ്നം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത പ്രശ്നം ശരിയായ സങ്കീർണ്ണ തലത്തിലാണെന്നും പഠന അനുഭവം വിദ്യാർത്ഥികൾക്ക് ശരിക്കും പ്രാധാന്യമുള്ളതാക്കാൻ അനുവദിക്കുന്നത്ര തുറന്ന നിലയിലാണെന്നും ഉറപ്പുവരുത്തുന്നതിന് ഇൻസ്ട്രക്ടർ മോഡറേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ പ്രശ്നം തിരഞ്ഞെടുക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് കാര്യമായ തിരഞ്ഞെടുപ്പ് ലഭിക്കുന്നു വ്യവസായവുമായി സഹകരിച്ച് വകുപ്പ് പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ചില സാഹചര്യങ്ങളിൽ സാധ്യമാണ് ഒരു വ്യവസായമോ അതിലധികമോ വ്യവസായങ്ങളുമായി നിലവിലുള്ള ധാരണാപത്രം ഉണ്ടെങ്കിൽ വകുപ്പുകളും വ്യവസായങ്ങളും സഹകരിക്കുകയും തുടർന്ന് പ്രോജക്റ്റുകളുടെ അപേക്ഷകനായി സ്വയം വാഗ്ദാനം ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ചും സാധ്യമാണ് വ്യവസായവുമായി സഹകരിച്ച് വകുപ്പ് പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുന്നു ലിസ്റ്റിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് ഒരു ചോയിസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക പ്രശ്നം നൽകാം എല്ലാ സാഹചര്യങ്ങളിലും പ്രശ്നം സങ്കീർണ്ണവും തുറന്നതുമായിരിക്കണം മറ്റൊരു സാധ്യത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതിചെയ്യുന്ന സമൂഹവുമായി വകുപ്പിന് ഒരു ബാധ്യത ഉണ്ട് ഒപ്പം അവരുടെ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹവുമായുള്ള അവരുടെ ആശയവിനിമയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പരിഹരിക്കാവുന്ന അവർക്ക് ആവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനാൽ സാധ്യതകൾ ധാരാളം യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള സാധ്യമായ തിരഞ്ഞെടുപ്പുകൾ നിരവധി ഇനിയും ഒരു ചോയ്സ് കൂടി ഉണ്ട് നമുക്ക് സിമുലേറ്റഡ് പ്രശ്നങ്ങൾ ഉപയോഗിക്കണമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളായിരിക്കണമോ പല സ്ഥാപനങ്ങളിലും നടത്തിയ അനുഭവഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ട് സമീപനങ്ങളും നന്നായി പ്രവർത്തിക്കുന്നുവെന്നാണ് പ്രശ്നങ്ങൾ സങ്കീർണ്ണവും തുറന്ന നിലയിലുള്ളതുമായിരിക്കുന്നിടത്തോളം കാലം രണ്ട് കേസുകളിലും ഗണ്യമായ പഠനം തോതിൽ കാണപ്പെടുന്നു അതിനാൽ പ്രശ്നം രൂപപ്പെടുത്തുന്ന രീതി വകുപ്പും ഇൻസ്ട്രക്ടറും വളരെ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തേണ്ടതുണ്ട് അവ്യക്തമായ രീതിയിൽ പ്രശ്നം രൂപപ്പെടുത്തണം അത് സങ്കീർണ്ണമായിരിക്കണം ഇത് ഓപ്പൺ എൻഡ് ആയിരിക്കണം തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠനം ഗണ്യമായി തോന്നുന്നു തുടർന്ന് മൂന്നാമത്തെ സവിശേഷത പരിഹാരം യാഥാർത്ഥ്യബോധമുള്ളതായിരിക്കണം എന്നതാണ് പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം പ്രോജക്ടിന്റെ ഫലമായുണ്ടാകുന്ന അന്തിമ പരിഹാരത്തിന് കാര്യമായ പ്രാധാന്യം നൽകുന്നു യഥാർത്ഥ പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം നൽകുന്ന നല്ല നിലവാരമുള്ള ഒരു ഉൽപ്പന്നമായിരിക്കണം ഇത് ഉൽപ്പന്നം ഒരു കരകൌശലം ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ഒരു പ്രൊഫഷണൽ ഗുണനിലവാരമുള്ള സാങ്കേതിക റിപ്പോർട്ട് അല്ലെങ്കിൽ വകുപ്പ് മുൻകൂട്ടി തീരുമാനിച്ച മറ്റെന്തെങ്കിലും ആകാം അന്തിമ ഉൽപ്പന്നം എന്തായിരിക്കണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുകയാണെങ്കിൽ അതും മികച്ചതാണ് എന്നാൽ ഇത് നല്ല നിലവാരമുള്ളതായിരിക്കണം ഇത് ഒരു കലാസൃഷ്ടിയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് ബോദ്ധ്യപ്പെടുത്താ൯ കഴിയണം ആ പ്രത്യേക അന്തിമ പരിഹാരം യഥാർത്ഥ പ്രശ്നം പരിഹരിക്കും ഉൽപ്പന്നത്തെ സാധൂകരിക്കുന്നു അത് വിദ്യാർത്ഥികൾ ലക്ഷ്യമിടേണ്ട പരിഹാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതയായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ഇത് ഉചിതമായി വിലയിരുത്തുകയും വേണം വ്യക്തമായും ഇവിടെ അധ്യാപകന്റെ പങ്ക് പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിൽ മാറ്റം വരുത്തുന്നു സ്റ്റേജിലെ മുനി എന്നതിൽ നിന്ന് കൂടെയുള്ള മാർഗ്ഗദർശി' എന്നാണ് ഈ പ ങ്കിനെ പൊതുവായി വിളിക്കുന്നത് ഇത് ഒരു വിവരദാതാവിൽ നിന്ന് ഒരുതരം ഉപദേഷ്ടാവിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിയോടൊപ്പം പ്രവർത്തിക്കുകയും വിദ്യാർത്ഥിയെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഗൈഡിലേക്ക് മാറുകയാണ് അതിനാൽ പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം ഗണ്യമായി വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് മാത്രമല്ല ഇൻസ്ട്രക്ടറുടെ പങ്ക് ഒരു ഗൈഡ് മെന്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ പോലെയാണ് ഇൻസ്ട്രക്ടർ നിയന്ത്രണം ഉപേക്ഷിക്കുകയും വിദ്യാർത്ഥികളുടെ സ്വയംഭരണത്തെ സുഗമമാക്കുകയും വേണം സാധ്യമായ പരിധി വരെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം ഡിസൈൻ തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കണം അവ ചില പിശകുകളിലേക്ക് നയിച്ചാലും വിദ്യാർത്ഥികൾ ആ പിശകുകളിൽ നിന്ന് പഠിക്കുന്നു അതിനാൽ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന രീതിയിൽ അവർക്ക് ഗണ്യമായ സ്വാതന്ത്ര്യം ലഭിക്കാൻ അനുവദിക്കണം തീർച്ചയായും ഒരു ദോഷവും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇൻസ്ട്രക്ടർ എല്ലായ്പ്പോഴും ലഭ്യമായിരിക്കണം അതല്ലാതെ ഇൻസ്ട്രക്ടറുടെ പങ്ക് ഒരു ഫെസിലിറ്റേറ്റർ പോലെയാണ് സ്വന്തം പഠനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വിദ്യാർത്ഥികളുമായി ഇൻസ്ട്രക്ടറുടെ ഇടപഴകൽ സുഖമായിരിക്കണം മാത്രമല്ല മാനസികാവസ്ഥയിലെ മാറ്റം ഇൻസ്ട്രക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും അനിവാര്യമാണ് പിന്നീട് ഫാക്കൽറ്റിക്കും വിദ്യാർത്ഥികൾക്കും ഇത് പ്രത്യേകിച്ചും ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രശ്നമാണെന്ന് ഞങ്ങൾ കാണും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ മുൻ വർഷങ്ങളിൽ ഒന്നാം വർഷം അല്ലെങ്കിൽ രണ്ടാം വർഷം അല്ലെങ്കിൽ മൂന്നാം വർഷം അവസാന വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും മിക്ക വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗിന്റെ സ്വഭാവം ഒരു സഹകാരി പ്രവർത്തനമായും റിയലിസ്റ്റിക് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമായും മനസ്സിലാക്കിയതായി തോന്നുന്നു അതിനാൽ അവസാന സെമസ്റ്ററിലോ അവസാന വർഷത്തിലോ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൽ അവർക്ക് കൂടുതൽ സൌകര്യമുണ്ട് എന്നാൽ മുൻ വർഷങ്ങളിൽ ഇത് ചെയ്യുന്നത് ചില വെല്ലുവിളികൾ ഉയർത്തുന്നതായി തോന്നുന്നു തുടർന്ന് ഇതിന്റെ മറ്റൊരു പ്രധാന സവിശേഷത സൃഷ്ടി ഇന്റർഡിസിപ്ലിനറി ആയിരിക്കണം എന്നതാണ് പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ ഇന്റർഡിസിപ്ലിനറി പ്രോജക്ടുകൾക്ക് മുൻഗണന നൽകുന്നു അടിസ്ഥാനപരമായി ഇന്നത്തെ ഒരു യഥാർത്ഥ പ്രൊഫഷണൽ ജോലിയുടെ ഇന്റർഡിസിപ്ലിനറി പ്രകൃതവും വ്യവസായവും സംസ്കാരത്തിന്റെ കാര്യത്തിൽ സ്പെഷ്യലൈസേഷന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ അവരുടെ വ്യക്തിപരമായ പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കാൻ പ്രാപ്തരാകണമെന്നു ആവശ്യപ്പെടുന്നു അതിനാൽ വിജ്ഞാനശാഖാപരമായ അതിർവരമ്പുകളെ ലംഘിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് പൊരുത്തപ്പെടലും സമഗ്രമായ ചിന്തയും സജ്ജമാക്കുക ക്രോസ് ബൌണ്ടറി പ്രശ്നങ്ങൾ അവ പരിഹരിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം മാത്രമല്ല അവർക്ക് അത് സുഖകരമായി തോന്നുകയും വേണം അവർ മറ്റ് ഡൊമെയ്നുകളിൽ വിദഗ്ധരാകണമെന്നല്ല മറിച്ച് വിവിധ ഡൊമെയ്നുകളിൽ നിന്നുള്ള വിദഗ്ധരുമായി എങ്ങനെ സഹകരിക്കാമെന്നും അവർ പഠിക്കുന്നു അതിനാൽ മിക്കവാറും എല്ലാ യഥാർത്ഥലോക പ്രവർത്തനസാഹചര്യങ്ങളും ഇന്റർഡിസിപ്ലിനറിയാണ് മാത്രമല്ല സമാനമായ സന്ദർഭത്തിൽ പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റ് അവസരം നൽകണം ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഗണ്യമായ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇതിന് ഒരു നിശ്ചിത തലത്തിലുള്ള ഭരണപരമായ ഇടപെടൽ ആവശ്യമായി വരും കാരണം മിക്കപ്പോഴും മിക്ക സ്ഥാപനങ്ങളിലും മിക്ക വകുപ്പുകളും ഒറ്റപ്പെട്ട നിലവറകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതേസമയം വിദ്യാർത്ഥികൾക്ക് ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവം നൽകുന്നതിന് വകുപ്പുകൾ തമ്മിൽ വളരെ ഉയർന്ന തലത്തിൽ സഹകരണം ആവശ്യമാണ് ഈ പ്രശ്നം വീണ്ടും ഞങ്ങൾ പിന്നീട് പരിശോധിക്കും ഈ സവിശേഷത അടുത്ത പ്രധാന സവിശേഷതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സഹകരണവും ഗ്രൂപ്പ് വർക്കും നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന്റെ അവസാനത്തെ പ്രധാന സവിശേഷതയാണിത് സഹകരണവും ഗ്രൂപ്പ് ജോലിയും വളരെ അത്യാവശ്യമാണ് ആശയവിനിമയം ആസൂത്രണം വ്യത്യസ്ത സംസ്കാരങ്ങളോടും കാഴ്ചപ്പാടുകളോടുമുള്ള ആദരവ് ടീം വർക്കിംഗ് എന്നിവ പോലുള്ള കൈമാറ്റം ചെയ്യാവുന്ന കഴിവുകൾ നേടുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും വിദ്യാർത്ഥി ടീമുകൾ വിപുലമായ സമയപരിധികളിലൂടെ ഇടപഴകുന്നു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പ്രൊഫഷണലുകളായി വിലമതിക്കണമെങ്കിൽ അവർ നേടുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവായി ഇത് കണക്കാക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള കൈമാറ്റം ചെയ്യാവുന്ന കഴിവുകളുമായി വിദ്യാർത്ഥികൾ വരുമെന്ന് വ്യവസായം പ്രതീക്ഷിക്കുന്നു കൂടാതെ പഠനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം വിദ്യാർത്ഥികൾക്ക് ഈ കൈമാറ്റം ചെയ്യാവുന്ന കഴിവുകൾ നേടാനും പ്രകടിപ്പിക്കാനും വളരെ നല്ല അവസരം നൽകുന്നു പദ്ധതിയുടെ സ്വഭാവമനുസരിച്ച് വ്യവസായവുമായി സഹകരിച്ച് പ്രവർത്തിക്കാം വ്യവസായവുമായി സഹകരിച്ച് വകുപ്പ് ഒരു പ്രശ്നം എടുത്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ വ്യവസായം അനുവദിച്ചേക്കാം അല്ലെങ്കിൽ അവർ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തുള്ള സോഷ്യൽ ഗ്രൂപ്പുകളുമായി പോലും ആയിരിക്കാം സംവദിക്കുക പ്രോജക്റ്റ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിദ്യാർത്ഥി ടീമുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തുള്ള സാമൂഹിക ഗ്രൂപ്പുകളുമായി സംവദിക്കുന്നുണ്ടാകാം ഇത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം പ്രൊഫഷണൽ കഴിവുകൾ പെരുമാറ്റങ്ങൾ നെറ്റ്വർക്കുകൾ എന്നിവ കൂടുതൽ വികസിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു അതിനാൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന്റെ വ്യാപകമായ ഉപയോഗത്തിൽ നിന്നുള്ള വലിയ നേട്ടമാണിത് ഗുണങ്ങൾ ധാരാളം ഞങ്ങൾ ഇവിടെ ലിസ്റ്റുചെയ്യുന്നത് ചില സാധാരണവ മാത്രം മെച്ചപ്പെട്ട അക്കാദമിക് നേട്ടം വാസ്തവത്തിൽ വിദ്യാർത്ഥികൾ ഈ സമീപനത്തിന് കീഴിൽ പഠിക്കുമ്പോൾ അവർ പരമ്പരാഗത പ്രബോധന മാതൃകകളെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു അതിനർത്ഥം വിലയിരുത്തൽ പരമ്പരാഗത മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽപ്പോലും വിദ്യാർത്ഥികൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതായി തോന്നുന്നു അതിനാൽ മെച്ചപ്പെട്ട അക്കാദമിക് നേട്ടവും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന എഞ്ചിനീയറിംഗിന്റെ മികച്ച പ്രചോദനവും സന്തോഷവും വിശാലമായ കഴിവുകൾ ക്ലെയിമുകളിൽ ഈ ക്ലെയിമുകളെ പിന്തുണയ്ക്കുന്നതിന് ഒരു അനുഭവ ഡാറ്റയുണ്ട് ടീം വർക്ക് ആശയവിനിമയം ധാർമ്മികപെരുമാറ്റം പ്രശ്നപരിഹാര ശേഷികൾ വിമർശനാത്മകവും നൂതനവുമായ ചിന്ത വിവരശേഖരണവും വിശകലനശേഷിയും വിവരം തിരയൽ കഴിവുകൾ പ്രോജക്ട് മാനേജുമെന്റ് കഴിവുകൾ വ്യക്തിഗത കഴിവുകൾ സമയമാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടുന്നു ആത്മാഭിമാനം പട്ടിക വളരെ നീണ്ടതായി തോന്നുന്നു ഇവയിൽ പലതും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ പ്രസ്താവിച്ച ചില പ്രോഗ്രാം ഫലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യവസായത്തെയും വകുപ്പ് നിലവിലുള്ള കമ്മ്യൂണിറ്റിയെയും സംബന്ധിച്ചിടത്തോളം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മികച്ച വരുമാനം ഫാക്കൽറ്റികൾക്ക് ഗുണനിലവാരമുള്ള ജോലികൾക്കുള്ള മികച്ച അവസരങ്ങളും കാരണം വ്യവസായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സ്വന്തം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തമായ പ്രോജക്ടുകൾ ഫാക്കൽറ്റിക്ക് ഉൾപ്പെടുത്താൻ കഴിയും മാത്രമല്ല ഇത് ഫാക്കൽറ്റിയുടെ മികച്ച ഗുണനിലവാരമുള്ള ജോലികൾക്ക് അവസരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ ഇത് ഒരു വിജയമാകാം ഫാക്കൽറ്റിക്കും വിദ്യാർത്ഥികൾക്കും ഈ സമീപനത്തിൽ നിന്ന് പ്രയോജനം നേടാം പ്രോഗ്രാം പാഠ്യപദ്ധതിയിൽ പ്രോജക്റ്റുകൾ എവിടെയാണ് വരുന്നത് എന്നതിന്റെ പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഒന്നാണ് ഒരു അവസാന വർഷ പ്രോജക്റ്റ് മാത്രം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ പാഠ്യപദ്ധതിയിൽ ഇത് വളരെ സാധാരണമാണ് പ്രോഗ്രാമിനെ പ്രോജക്റ്റ് അധിഷ്ഠിത പ്രോഗ്രാം ആക്കുന്നില്ല ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മിനി പ്രോജക്റ്റുകൾ ഉൾപ്പെടെ ആരംഭിച്ചു ആദ്യത്തെ 3 വർഷങ്ങളിൽ ഒന്നോ അതിലധികമോ സെമസ്റ്ററുകളിൽ രണ്ട് ക്രെഡിറ്റുകൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് വളരെ അപൂർവ്വമായി മൂന്ന് ക്രെഡിറ്റുകൾ എന്ന് പറയാം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത് ആദ്യ വർഷത്തിൽ തന്നെ അവതരിപ്പിച്ചു ആദ്യ സെമസ്റ്ററും ഒന്നോ രണ്ടോ ക്രെഡിറ്റുകളുള്ള ഒരു പരിമിത പ്രോജക്റ്റ് പ്രവർത്തനം അവ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളായി നടപ്പിലാക്കാം ഒന്നോ രണ്ടോ ക്രെഡിറ്റ് മൂല്യമുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ മുമ്പത്തെ ലബോറട്ടറി ഘടകത്തെ മാറ്റിസ്ഥാപിക്കുന്ന ഒരു സാധാരണ കോഴ്സിന്റെ ഭാഗങ്ങളായി അറ്റാച്ചുചെയ്ത ലബോറട്ടറി ഉള്ള ചില കോഴ്സുകൾ ഉണ്ട് ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ ലബോറട്ടറി ജോലികൾ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനുപകരം ആ കോഴ്സ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു ചില കോഴ്സുകളിൽ പരമ്പരാഗത ലബോറട്ടറി ജോലികൾക്ക് പകരം ആ കോഴ്സ് ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഒരു മിനി പ്രോജക്റ്റ് ലഭിക്കുന്നു ആ നടപ്പാക്കൽ സമീപനം പോലും നിരവധി സ്ഥാപനങ്ങളിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും വ്യാപ്തി പ്രാധാന്യം ക്രെഡിറ്റ് മൂല്യം എന്നിവ പരിമിതമാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ പ്രബോധനത്തിനും പഠനത്തിനുമുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴും സാധാരണമല്ല അതിനർത്ഥം പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് ഇപ്പോഴും വളരെ സാധാരണമല്ല എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ കൂടുതൽ കൂടുതൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിലേക്ക് തിരിയുന്നുവെന്നത് ആരോഗ്യകരമായ ഒരു സൂചനയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിൽ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിൽ നിന്ന് സമ്പൂർണ്ണ നേട്ടം ലഭിക്കണമെങ്കിൽ അത് കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ട് പ്രോജക്റ്റ് ജോലികളുടെ വിലയിരുത്തലും വളരെ അനിവാര്യവും നിർണായകവും ബുദ്ധിമുട്ടുള്ളതുമാണ് മൂല്യനിർണ്ണയം രൂപവത്കരണവും സംഗ്രഹവും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഒരു നിർണായക പ്രവർത്തനമാണ് പ്രോജക്റ്റ് ജോലിയുടെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതും സങ്കീർണ്ണവുമാണ് പ്രോജക്റ്റിന്റെ അവസാനം വിദ്യാർത്ഥികൾ സാധാരണയായി ഒരു രേഖാമൂലമുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും പരിഹാരം ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം പ്രദർശിപ്പിക്കുകയും ഒരു അവതരണം നടത്തുകയും ചെയ്യുന്നു ഈ മൂന്ന് ഘടകങ്ങളും ശരിയായി വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇതിന് മുൻകൂട്ടി ഇൻസ്ട്രക്ടർമാർക്ക് ഗണ്യമായ ആസൂത്രണം ആവശ്യമാണ് അനുയോജ്യമായ തിരുത്തലുകൾ ഞങ്ങൾ വികസിപ്പിക്കണം മുമ്പത്തെ യൂണിറ്റുകളിലൊന്നിൽ പ്രോജക്റ്റ് വർക്ക് വിലയിരുത്തുന്നതിനുള്ള റുബ്രിക്സ് ഞങ്ങൾ ചർച്ചചെയ്തു കൂടാതെ ആ പദങ്ങൾ മുൻകൂട്ടി വിദ്യാർത്ഥികളുമായി പങ്കിടണ്ടതുണ്ട് ഗ്രൂപ്പും വ്യക്തിഗത സംഭാവനകളും ഞങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അന്തിമ പരിഹാരത്തിന്റെ ഗുണനിലവാരവും വിദ്യാർത്ഥി ടീമുകൾ പിന്തുടരുന്ന പ്രക്രിയയും ഞങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് രണ്ട് വശങ്ങളും ഞങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് റുബ്രിക്സ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വികസിപ്പിക്കുകയും വിദ്യാർത്ഥികളുമായി മുൻകൂട്ടി പങ്കിടുകയും വേണം പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ പോകുന്ന പ്രക്രിയയെക്കുറിച്ച് ഒരുതരം ധാരണ ലഭിക്കുന്നതിന് പ്രതിഫലന ജേർണലുകൾ പരിപാലിക്കുന്നത് പോലുള്ള ചില പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകേണ്ടതുണ്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് മാത്രം പര്യാപ്തമല്ല വിദ്യാർത്ഥികൾ അവരുടെ ജോലിയെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നതിനുള്ള കഴിവ് വികസിപ്പിക്കുകയും ആ ജോലിയിൽ നിന്ന് ഉചിതമായ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും വേണം ഒരു പ്രതിഫലന ജേർണൽ ഈ പ്രക്രിയയെ വളരെയധികം സഹായിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രതിഫലന ജേർണലുകൾ പരിപാലിക്കാൻ പരിചയമുണ്ടായിരിക്കില്ല അതിനാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് ശരിയായ പാഠങ്ങൾ എങ്ങനെ വരയ്ക്കാമെന്ന് മനസിലാക്കാൻ വളരെ സഹായകരമാകുന്ന ഈ പ്രതിഫലന ജേർണലുകൾ എങ്ങനെ പരിപാലിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചിലതരം നിർദ്ദേശങ്ങൾ നൽകേണ്ടി വന്നേക്കാം ഈ പ്രശ്നങ്ങളിൽ ചിലത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുമ്പത്തെ മൊഡ്യൂളുകളിലും ചർച്ചചെയ്തു ഈ നിർദ്ദിഷ്ട പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ സ്ഥാപനങ്ങളിലുടനീളമുള്ള അനുഭവം ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുല്യമായ ഒരു മാർഗമുണ്ടെന്ന് തോന്നുന്നില്ല സ്ഥാപനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ രീതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് പ്രധാന നടപ്പാക്കൽ വെല്ലുവിളികൾ അവസാന വർഷ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നന്നായി മനസ്സിലാക്കാവുന്ന പ്രക്രിയയാണ് ഡിപ്പാർട്ട്മെന്റിനും ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായി ഒരു അവസാന വർഷ പ്രോജക്റ്റ് വിജയകരമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനവും നിലവിലുണ്ട് ഇത് വളരെ പരിചിതമാണ് പ്രബോധനത്തിനും പഠനത്തിനുമുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് പല സ്ഥാപനങ്ങൾക്കും പരിചിതമാണ് പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശങ്ങൾ കാര്യമായ തോതിൽ നടപ്പിലാക്കുന്നത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിരവധി വെല്ലുവിളികളാണ് ഫാക്കൽറ്റി എന്ന് ഞാൻ പറയുമ്പോൾ വകുപ്പുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേറ്റീവ് മിഷനറി എന്നിവ വിശാലമായി അർത്ഥമാക്കുന്നു വിദ്യാർത്ഥികൾക്കുള്ള പ്രധാന വെല്ലുവിളികൾ ചില പ്രധാന വെല്ലുവിളികൾ ഗ്രൂപ്പ് വർക്ക് ഈ ഗ്രൂപ്പ് വർക്ക് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കരുത് കാരണം അവർ ഇതിനകം 3 വർഷത്തെ പ്രോഗ്രാമിലൂടെ കടന്നുപോയി അവർ വിവിധ സഹപാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വകുപ്പുതല പ്രവർത്തനങ്ങൾ വിജയകരമായ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലാകാൻ ആവശ്യമായ ചില കഴിവുകൾ അവർ ഇതിനകം നേടിയിട്ടുണ്ട് അതിനാൽ ഗ്രൂപ്പ് ജോലിയുടെ പ്രാധാന്യം അവർ വിലമതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സഹകരണ ജോലികൾ ചെറിയ വിടവുകൾ എന്നിവ ഇൻസ്ട്രക്ടർമാരുടെ ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് ജോലിയെ അഭിനന്ദിക്കുന്നത് വളരെ കഠിനമോ ബുദ്ധിമുട്ടുള്ളതോ ആയിരിക്കില്ല എന്നാൽ മുൻ വർഷങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് പ്രത്യേകിച്ച് വ്യത്യസ്തമായിരിക്കാം പ്രത്യേകിച്ച് ഒന്നാം വർഷവും രണ്ടാം വർഷവും ഒരുപക്ഷേ അവർ മൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പരിവർത്തനം സംഭവിക്കാൻ തുടങ്ങും തീർച്ചയായും അവസാന വർഷത്തിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട് ചില ഗ്രൂപ്പ് അംഗങ്ങളുടെ സൌജന്യ സവാരി എല്ലായ്പ്പോഴും ഒരു പരാതിയാണ് ഒരു ഗ്രൂപ്പ് വലുപ്പം 4 അല്ലെങ്കിൽ 5 പോലെയാകുമ്പോൾ ഇടയ്ക്കിടെ ഗ്രൂപ്പ് അംഗങ്ങളിൽ ചിലർ ഈ ശ്രമത്തിന് സംഭാവന നൽകുന്നില്ലെങ്കിലും ക്രെഡിറ്റിൽ ഒരു പങ്ക് ആഗ്രഹിക്കുന്നു ഇത് പരിഹരിക്കേണ്ട ചില പിരിമുറുക്കങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും നയിക്കുന്നു ഗ്രൂപ്പ് ജോലിയിൽ പരിചയക്കുറവും പൊരുത്തക്കേടുകൾ കൈകാര്യം ചെയ്യുന്നതും ഒരു പ്രധാന പ്രശ്നമാണ് മത്സര മനോഭാവത്തിന്റെ മുൻ സംസ്കാരം പ്രത്യേകിച്ച് പ്ലസ് ടു ലെവലിൽ മിക്ക വിദ്യാർത്ഥികളും ഉയർന്ന മത്സരാധിഷ്ഠിത മോഡിൽ ജോലിചെയ്യുന്നത് പതിവാണ് അതിനാലാണ് അവർ മികച്ച റാങ്കിംഗ് സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ ശ്രമിക്കുന്നത് ആ പന്ത്രണ്ടാം ക്ലാസ് പ്ലസ് ടു ഘട്ടത്തിലുടനീളം മത്സരാധിഷ്ഠിത രീതിയിലാണ് അവർ ജീവിതം നയിക്കുന്നത് തുടർന്ന് എഞ്ചിനീയറിംഗിന്റെ ആദ്യ വർഷത്തിലേക്ക് ഉടൻ വരുന്നു ഗ്രൂപ്പ് ജോലിയുടെ പ്രയോജനങ്ങൾ കാണുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എഞ്ചിനീയറിംഗ് ഒരു ഗ്രൂപ്പ് ജോലിയാണെന്ന് കാണാൻ തീവ്രമായ മത്സര മോഡിൽ നിന്ന് പുറത്തുവരാൻ അവർക്ക് കുറച്ച് സമയമെടുക്കും ഈ വെല്ലുവിളികൾ അവരുടെ വിദ്യാർത്ഥികളിൽ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവയെ മറികടക്കാൻ ഇൻസ്ട്രക്ടർമാർ ശരിക്കും ഉപകരണ തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട് പ്രോജക്റ്റ് അധിഷ്ഠിത പഠനവുമായി പൊരുത്തപ്പെടുക പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശത്തിന്റെ പുതിയ സമീപനവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധിമുട്ട് വളരെ യഥാർത്ഥമാണ് ഈ സമീപനത്തിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവരുടെ ഗ്രേഡുകളിൽ സ്വാധീനം ചെലുത്തുന്ന നിരവധി തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് കൂടാതെ അവരിൽ പലരും അവരുടെ പഠനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വളരെ വിമുഖത കാണിച്ചേക്കാം പ്രത്യേകിച്ചും കാരണം അതുവരെ ഒരുപക്ഷേ അവർ ഒരു പഠനസാഹചര്യത്തിൽ പതിവുള്ളവരാണ് അതിൽ എല്ലാം അധ്യാപകർ അവർക്ക് നൽകുന്നു അവർ വളരെ നിഷ്ക്രിയമായ ഒരു പങ്ക് വഹിക്കുന്നു സ്വന്തം പഠനത്തിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ടില്ല അവർ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടില്ല അതിനാൽ കൂടുതൽ പക്വതയാർന്ന ഒരു പങ്ക് പെട്ടെന്ന് ഏറ്റെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കാം മാത്രമല്ല അവർ ഒരു പരമ്പരാഗത ഇൻസ്ട്രക്ഷണൽ മോഡിന് മുൻഗണന നൽകാം അവിടെ ടീച്ചർ പ്രധാനമായും വിവരങ്ങൾ നൽകുന്നയാളാണ് കൂടാതെ വിദ്യാർത്ഥി ഒരു റിസീവർ ഒരു നിഷ്ക്രിയ റിസീവർ ചില വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ആ മോഡ് ഇഷ്ടപ്പെട്ടേക്കാം അങ്ങനെയാണ് ഒരു കോഴ്സ് പഠിപ്പിക്കേണ്ടതെന്ന് അവർ നിർബന്ധം പിടിച്ചേക്കാം അതിനാൽ വിദ്യാർത്ഥികളെ ശരിയായി പ്രചോദിപ്പിക്കുന്നതിൽ ഇൻസ്ട്രക്ടർമാർക്ക് ഒരു വെല്ലുവിളി ഉണ്ടാകും പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ താരതമ്യേന ഘടനയില്ലാത്ത ഈ പഠന അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നു വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ അവസാന വർഷത്തോടെ അതിന്റെ പിന്നിലെ ചരിത്രം കാരണം അത് വെല്ലുവിളിയാകണമെന്നില്ല മുൻ വർഷങ്ങളിലോ മൂന്നാം വർഷത്തിലോ രണ്ടാം വർഷത്തിലോ ഒന്നാം വർഷത്തിലോ ഇത് അവതരിപ്പിക്കണമെങ്കിൽ ഇത് ശരിക്കും ഒരു വെല്ലുവിളിയാകാം പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ താരതമ്യേന ഘടനയില്ലാത്ത പഠന അന്തരീക്ഷത്തെ നേരിടുക വിദ്യാർത്ഥികൾക്ക് ഒരു വെല്ലുവിളിയാകാം മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഉണ്ടാകാം കാരണം ധാരാളം കാര്യങ്ങൾ റൂബ്രിക്സ് അടിസ്ഥാനമാക്കിയുള്ളതും ആത്മനിഷ്ഠമായ വിലയിരുത്തലുകളുമാണ് പരമ്പരാഗത കോഴ്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ടാകാം വിദ്യാർത്ഥികൾക്ക് ആ ഭയം ഉണ്ടാകാം ഫാക്കൽറ്റിക്കും പ്രധാന വെല്ലുവിളികൾ ഉണ്ട് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഉപദേഷ്ടാവായി അവർ പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ ഇത് വളരെ സാധാരണമാണ് അതിനാൽ അവസാന വർഷത്തിലെ വിദ്യാർത്ഥികൾക്കായി ഒരു ഉപദേഷ്ടാവിന്റെ വേഷം ഫാക്കൽറ്റികൾക്ക് പരിചിതമാണ് ഒന്നാം വർഷത്തിലോ രണ്ടാം വർഷത്തിലോ വളരെ ചെറുപ്പക്കാരും പരിശീലനം നേടാത്തവരുമായ വിദ്യാർത്ഥികൾക്ക് അതേ റോൾ സ്വീകരിക്കുന്നതിൽ അവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടിവന്നേക്കാം പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള പഠന മോഡിൽ നിന്നും വരുന്നവരാണ് ആ വിദ്യാർത്ഥികളെ ഉപദേശിക്കുന്നതിൽ ഫാക്കൽറ്റിക്കും വെല്ലുവിളി നേരിടാം പാഠ്യപദ്ധതിയിലെ കനത്ത പ്രോജക്റ്റ് ഘടകങ്ങൾക്കായി വിഭവങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇത് ഒരു അവസാന വർഷ പ്രോജക്റ്റ് മാത്രമാണെങ്കിൽ അത് മറ്റൊരു കഥയാണ് എന്നാൽ എല്ലാ വർഷവും ഓരോ സെമസ്റ്റർ പ്രോജക്ടും അവതരിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഒന്നിലധികം പ്രോജക്റ്റ് ടീമുകൾ ഉണ്ടെങ്കിൽ യഥാർത്ഥ ഭൌതിക വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ കണ്ടെത്തുന്നു ഹാർഡ്വെയർ ഘടകങ്ങൾ സോഫ്റ്റ്വെയർ പാക്കേജുകൾ മറ്റ് അവശ്യ ഘടകങ്ങൾ അതുപോലെ തന്നെ വ്യവസായത്തിന് ഉചിതമായ കണക്ഷനുകൾ ഉചിതമായ പ്രശ്ന സെറ്റുകൾ എല്ലാത്തരം വിഭവങ്ങളും അവർക്ക് ധനസഹായം നൽകുന്നത് ഫാക്കൽറ്റികൾക്ക് വളരെ വെല്ലുവിളിയായി മാറിയേക്കാം ഫാക്കൽറ്റി തന്നെ ഇത് ഒരു ഓവർലോഡായി കണ്ടെത്തിയേക്കാം കാരണം വിലയിരുത്തൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ റൂബ്രിക്സ് വികസിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ ഓരോ പ്രോജക്റ്റ് ടീമിനെയും വ്യക്തിഗത വിദ്യാർത്ഥികളുടെ സംഭാവനയെയും ഞങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് ഇത് ഫാക്കൽറ്റികളിൽ പലരും അമിതഭാരമായി കാണുന്നു പ്രക്രിയ ശരിയായി നടപ്പാക്കുന്നുണ്ടെന്ന് ഫാക്കൽറ്റി ഉറപ്പുവരുത്തണം വിദ്യാർത്ഥി ടീമുകൾ ശരിയായ പ്രക്രിയയിലൂടെ കടന്നുപോകുകയും ആ പ്രക്രിയയിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങൾ വിജയിക്കാൻ ഒടുവിൽ ഒരു പ്രോജക്റ്റ് ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിച്ചാൽ മാത്രം പോരാ വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന പ്രക്രിയ പ്രോജക്റ്റ് അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ഈ ഇൻസ്ട്രക്ടർമാർക്ക് ഒരു ഉപദേഷ്ടാവെന്ന നിലയിൽ ശക്തമായ പങ്ക് വഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതും ഫാക്കൽറ്റിയെ വെല്ലുവിളിക്കുന്നതായി തോന്നാം തീർച്ചയായും മനുഷ്യന്റെ പ്രശ്നം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു വിദ്യാർത്ഥി സംഘർഷങ്ങളും പ്രതീക്ഷകളും കൈകാര്യം ചെയ്യുന്നത് ഫാക്കൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാകും ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില നടപ്പാക്കൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള നടപ്പാക്കലിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തരം ഒറ്റമൂലിയായി ഒരു തരം നിർദ്ദേശങ്ങൾ എന്നിവ കൊണ്ടുവരുന്നത് പ്രബോധനത്തിനുള്ള സമീപനത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ വ്യത്യസ്ത കേസ് പഠനങ്ങളെ അടിസ്ഥാനമാക്കി ഈ കേസ് പഠനങ്ങളിൽ ചിലത് ഈ യൂണിറ്റിന്റെ അവസാനം ഞങ്ങൾ നോക്കും വ്യത്യസ്ത സമീപനങ്ങളുമായി ഇടപെടും ഈ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇതായിരിക്കാം ആദ്യത്തേത് അതാണ് ഇതിന് മുൻകൂട്ടി കാര്യമായ ആസൂത്രണം ആവശ്യമാണ് സെമസ്റ്റർ ആരംഭിക്കുന്നതിന് വളരെ മുമ്പുതന്നെ ഞങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് വിദ്യാർത്ഥി ടീമുകൾ പ്രവർത്തിക്കാൻ പോകുന്ന ഡൊമെയ്ൻ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ആവശ്യമായ വിഭവങ്ങൾ എന്തായിരിക്കും ആ വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ആവശ്യമായ സമയപരിധി എന്തായിരിക്കും അവ ഉടനടി ലഭ്യമല്ല ബജറ്റ് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് വിവിധ ടീമുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ വ്യാപ്തി എന്തായിരിക്കും ഇവയെല്ലാം സംബന്ധിച്ച് നാം മുൻകൂട്ടി തന്നെ കാര്യമായ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു സമൂഹം ബാഹ്യഏജൻസികൾ ഉൾപ്പെടണമെങ്കിൽ ബാഹ്യഏജൻസികളുമായുള്ള ചർച്ചകൾ മുൻകൂട്ടി തന്നെ നന്നായി സംഭവിക്കണം കമ്മ്യൂണിറ്റിക്ക് പ്രസക്തമായ ഒരു പ്രോജക്റ്റിൽ വിദ്യാർത്ഥി ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി നേതാക്കളുമായി ശരിയായ ഇടപെടൽ മുൻകൂട്ടി നന്നായി നടക്കണം പ്രോജക്റ്റ് ആശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനുമുമ്പ് ശ്രദ്ധാപൂർവ്വമായ പരിശോധന ചില പൈലറ്റ് പഠനവും അവ ആവശ്യമായി വന്നേക്കാം പ്രത്യേകിച്ചും ഞങ്ങൾ വളരെ സമൂലമായ ആശയങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പ്രോജക്റ്റായി നടപ്പിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപകടസാധ്യത മനസിലാക്കാതെ ഞങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നിരാശാജനകമായി തോന്നാം ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നായിരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നാൽ അതേ സമയം നിരാശയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും വിപരീത ഫലപ്രദമായിരിക്കും അതിനാൽ പദ്ധതിയുടെ വെല്ലുവിളി നിറഞ്ഞ സ്വഭാവവും നടപ്പാക്കലിന്റെ എളുപ്പവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ വളരെ മികച്ച ഒരു ബാലൻസ് ആയിരിക്കണം ഫാക്കൽറ്റിക്ക് ഇത് വിഭജിക്കാൻ ആശയം പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതി ചിലപ്പോൾ ഒരു പൈലറ്റ് പഠനവും ഒരുതരം പ്രാഥമിക പരിശോധനയും ആയിരിക്കാം അവയെല്ലാം അത്യാവശ്യമായിരിക്കാം ഇത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായിത്തീരുന്നു കാരണം ഇപ്പോൾ ഞങ്ങൾ പ്രോജക്റ്റ് അധിഷ്ഠിത ആശയം വലിയ തോതിൽ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് അവസാന വർഷം മാത്രമല്ല മുമ്പത്തെ സെമസ്റ്ററുകളിലും ഞങ്ങൾ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള മുൻകൂട്ടി ആസൂത്രണം വളരെ അത്യാവശ്യമാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഒന്നാം വർഷത്തിലും രണ്ടാം വർഷത്തിലും വിഭവങ്ങൾക്കായി എങ്ങനെ തിരയാമെന്നും ഒരു ടീമിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്നും മനസിലാക്കുന്നതിന് അത്യാവശ്യമായിരിക്കാം ഈ പരിശീലനം ആവശ്യമായിരിക്കാം ഒരുതരം ചട്ടക്കൂട് ആവശ്യമായി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് ചില പരീക്ഷണ അനുഭവങ്ങളും പഠന സാമഗ്രികളും നൽകുന്നത് ഇതിൽ ഉൾപ്പെടും ഈ ചട്ടക്കൂട് വീണ്ടും വളരെ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യണം സഹകരണം സുഗമമാക്കുന്നതിന് മാർഗനിർദ്ദേശവും ആവശ്യമാണ് ന്യായവും സുതാര്യവുമായ വിലയിരുത്തൽ തികച്ചും അത്യാവശ്യമാണ് അവസാനവർഷ പ്രോജക്റ്റിനപ്പുറം പ്രോജക്റ്റ് വർക്ക് ഷെയർ വർദ്ധിക്കുന്നതിനാൽ ഇവയെല്ലാം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു ഇവയെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് പിബിഐ സ്വീകരിക്കണോ പിന്നെ എന്ത് ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ നിങ്ങൾ ശരിക്കും നോക്കാൻ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും വെല്ലുവിളികൾ നിങ്ങൾക്ക് പിബിഐ സ്വീകരിക്കണോ വിദ്യാർത്ഥി ടീമുകൾ രൂപീകരിക്കുന്നതു മുതൽ സംഗ്രഹ മൂല്യനിർണ്ണയത്തിന്റെ അവസാന ഘട്ടം വരെ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും നിരവധി ചോയിസുകൾ ഉണ്ട് ഈ ചോയ്സുകൾ നിരവധി നിർദ്ദിഷ്ട സാഹചര്യഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സാമാന്യവൽക്കരണം നടത്താൻ കഴിയില്ല പൊതുവായ ചില ആശങ്കകൾ വിശദീകരിക്കാമെങ്കിലും മറ്റ് നിരവധി സാഹചര്യഘടകങ്ങളുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെന്റ് വ്യക്തിഗത ഇൻസ്ട്രക്ടർമാരുടെ തലത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് ഈ ചോയിസുകൾക്ക് അദ്വിതീയ അൽഗോരിതം പരിഹാര സമീപനമില്ല എല്ലാവർക്കും വിവേചനാധികാരം ആവശ്യമാണ് അവയ്ക്കെല്ലാം കൂട്ടായ മസ്തിഷ്കപ്രക്രിയ ആവശ്യമാണ് അവയ്ക്കെല്ലാം ഒരു പരീക്ഷണഘട്ടം പോലും ആവശ്യമായി വന്നേക്കാം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചോയ്സുകൾ വികസിക്കുന്ന സാഹചര്യങ്ങൾ അവർക്ക് ആവശ്യമായി വന്നേക്കാം വാസ്തവത്തിൽ മിക്ക പ്രായോഗിക അനുഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഓരോ സ്ഥാപനത്തിനും അതിന്റേതായ അതുല്യമായ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുപ്പുകൾ വികസിക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായി നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭ ഘട്ടമെങ്കിലും അല്പം പരുക്കൻസവാരിക്ക് നിങ്ങൾ തയ്യാറായിരിക്കണം പ്രക്രിയ സുസ്ഥിരമാക്കാൻ കുറച്ച് സമയമെടുക്കും പ്രാരംഭ ദിവസങ്ങളിൽ സവാരി വളരെ പരുക്കൻ ആകാം കൂടാതെ പ്രോജക്ട് അധിഷ്ഠിത ആശയങ്ങൾ കൂടുതൽ വിപുലമായ രീതിയിൽ നടപ്പാക്കണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി തയ്യാറാകണം അവസാന വർഷ പ്രോജക്റ്റ് ശരിക്കും ഒരു ആശങ്കയുമില്ല എന്നാൽ വളരെ വിപുലമായ തോതിൽ ഈ ആശയങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ വിഭവങ്ങൾ ആവശ്യമാണ് അങ്ങേയറ്റം മികച്ചത് മെറ്റാ പോയിന്റർ നിക്കൊല ഹാർമർ പ്ലിമത് യൂണിവേഴ്സിറ്റി ആണ് പ്രോജക്ട് അധിഷ്ഠിത പഠന വിഷയസംബന്ധിയായ സകല രചനകളുടെ റിവ്യൂ httpswww plymouth ac ukuploadsproductiondocumentpath22733 Literature review Project based learning pdf ലിങ്ക് അവസാനമായി ആക്സസ് ചെയ്തത് 01 ചില ആശയങ്ങൾക്കായി നിങ്ങൾക്ക് ഇവ പരിശോധിക്കാം അഭ്യാസം പ്രോജക്റ്റ് വർക്കിലെ വിദ്യാർത്ഥികളെ മെന്ററിംഗ് ചെയ്യുന്നതിലെ നിങ്ങളുടെ അനുഭവം ദയവായി വിവരിക്കുക നിങ്ങളിൽ മിക്കവർക്കും അവസാന വർഷ പ്രോജക്റ്റ് മെന്ററിംഗ് ചെയ്യുന്നതിൽ പരിചയമുണ്ടായിരിക്കണം നിങ്ങളിൽ ചിലർ മുൻ വർഷങ്ങളിൽ ചില മിനി പ്രോജക്റ്റുകൾ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിൽ പ്രോജക്റ്റ് ജോലികൾ മെന്ററിംഗ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു പരിചയമുണ്ടെങ്കിൽ അത് കൂടുതൽ സ്വാഗതാർഹമാണ് അവസാന വർഷ പ്രോജക്റ്റിനും മുമ്പത്തെ പ്രോജക്റ്റിനും ഇടയിൽ നിങ്ങൾക്ക് ഒരു ചോയിസ് ഉണ്ടെങ്കിൽ മുമ്പത്തെ പ്രോജക്റ്റ് പരിഗണിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെ മെന്ററിംഗ് ചെയ്യുന്നതിലെ നിങ്ങളുടെ അനുഭവം ദയവായി അത് വിവരിക്കുക വിവരണത്തിൽ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ പ്രവർത്തിച്ച പരിഹാരങ്ങൾ ഗുണങ്ങൾ നിങ്ങളുടെ സ്വന്തം സവിശേഷ സാഹചര്യഘടകങ്ങൾ എന്നിവ ഉൾപ്പെടാം ദയവായി വിവരിക്കുക ഇത് 300 വാക്കുകളിൽ കുറവാണെങ്കിൽ മികച്ചത് പക്ഷേ അത് ഒരു പരിധിയായി കണക്കാക്കരുത് സാഹചര്യപരമായ ഘടകങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ അനുഭവം കൂടുതൽ വിശദമായി പങ്കിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 300 വാക്കുകളും കവിയാൻ നിങ്ങൾക്ക് സ്വാഗതം അതുവഴി നമുക്ക് ഈ കൂട്ടായ അനുഭവം പങ്കിടാൻ കഴിയും കാരണം വളരെ പ്രധാനപ്പെട്ടതായി കാണപ്പെടുന്ന എന്തെങ്കിലും ഉണ്ട് ഇതിൽ നിന്ന് പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം വിശാലമായ തോതിൽ നാം കൂട്ടായി പഠിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ നൂറ്റാണ്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിന് അത്തരം പുതിയ സമീപനങ്ങൾ ആവശ്യപ്പെടുന്നതായി തോന്നുന്നു അഭ്യാസത്തിന്റെ ഫലങ്ങൾൽ പങ്കിട്ടതിന് നന്ദി story com അടുത്ത യൂണിറ്റിൽ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങളോടുള്ള മറ്റൊരു പ്രധാന സമീപനം ഞങ്ങൾ പരിശോധിക്കും പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ പ്രശ്നഅധിഷ്ഠിത സമീപനത്തിന്റെ വ്യാപ്തി ഒരു പരിധിവരെ കുറവാണെന്ന് തോന്നുന്നുവെങ്കിലും ഇപ്പോഴും ആ സമീപനവും വളരെ പ്രധാനമാണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ അത് സ്വീകരിക്കുന്നതിൽ അത് നേട്ടമുണ്ടാക്കുന്നു അതിനാൽ അടുത്ത യൂണിറ്റിലെ നിർദ്ദേശങ്ങളോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം ഞങ്ങൾ നോക്കുന്നു അതുവരെ ഞങ്ങൾ കാത്തിരിക്കും നിങ്ങളെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു